എങ്ങനെ ഒരു ഇൻ വിട്രോ സജ്ജീകരണത്തിൽ മൈലിനേഷൻ പ്രക്രിയ നേടിയെടുക്കാൻ എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ സംഭാഷണം പുനരാരംഭിക്കാം അവസാന ക്ലാസ്സിൽ ഞാൻ പെരിഫറൽ ന്യൂറോണുകളെ എടുത്തതും അവയെ വളരാൻ അനുവദിച്ചതും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതിനാൽ ഇന്ന് അവിടെ നിന്നും തുടങ്ങാംആറാം ആഴ്ചയിലെ മൂന്നാം ലെക്ചർ ഈ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു 3 4 ദിവസം ഇവയെ വളർത്തിയ ശേഷം ചെറിയ വലുപ്പത്തിലുള്ള ഷ്വാൻ സെല്ലുകൾ ഇതിലേക്ക് ചേർക്കാം എന്ന് ഇങ്ങനെ ഷ്വാൻ സെല്ലുകളെ അവിടെ എത്തിക്കാൻ അനുവദിച്ചാൽ പിന്നെ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് ഇവിടെ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്തെന്നാൽ ഈ ഷ്വാൻ സെല്ലുകൾ ആക്സോണിലേക്കു നീങ്ങുന്നു എന്നിട്ട് അവിടിരുന്നുകൊണ്ടു അവർ വിഭജിക്കുന്നു ഇങ്ങനെ ഇതുപോലൊരു രൂപം അവർ അക്സൊണിന് ചുറ്റുമായി സൃഷ്ടിക്കുന്നു അതല്ല എങ്കിൽ ഇതൊരിക്കലും സംഭവിക്കില്ല അതിനാൽ ഇങ്ങനെ ആക്സൊൻസുകളിൽ പോയി അവയെ ചുറ്റിപിടിക്കുന്ന രീതിയിൽ ഷീറ്റ് പോലൊന്ന് ഉണ്ടാകുന്നതാണ് സംഭവിക്കാവുന്ന ഒരു കാര്യം എന്നാൽ ഈ പ്രേശ്നത്തെ മറ്റൊരു രീതിയിൽ ടാർഗറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിലേക് വരുന്നതിനു മുൻപ് ഇതിനെക്കുറിച് ഒന്ന് ചിന്തിക്കുക ഇവർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പരിധിയിലാണ് വിഭജിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക കാരണം ഇവരുടെ വിഭജനത്തിന് പരിധിയില്ലെങ്കിൽ അവ ഒരുപാട് ആയി തീരാൻ സാധ്യത ഉണ്ട് അതിനാൽ അതേ കൾച്ചർ മോഡലിൽ ന്യൂറോൺ സെല്ലുകളുടെയും ഗ്ലിയാൽ സെല്ലുകളായ ഷ്വാൻ സെല്ലുകടെയും വളർച്ച അനുവദിക്കുന്ന ഒരു പൊതു മീഡിയം ആണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ശേഷം ഈ സെല്ലുകൾ അതിന്റെ ജൈവശാസ്ത്രപരമായ റോൾ ആയ മൈലീനേഷൻ നേടുന്നതിനായി വിഭജിക്കുമ്പോൾ ആ വിഭജനം പരിമിതമാണ് എന്നും ഉറപ്പുവരുത്തുക എന്തുകൊണ്ടാണ് ഇത് പരിമിതപ്പെടുത്തേണ്ടത് കാരണം അല്ലാത്തപക്ഷം ഇത് ഡിഷ് പൂർണ്ണമായും മൂടികളയും പിന്നീട് നിങ്ങൾക് ഇതിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് വിഭജനം നിയന്ത്രിക്കുന്നതിനായി ഒരു ഘട്ടത്തിൽ നിങ്ങൾക് ആന്റിമൈറ്റോട്ടിക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും മൈറ്റോസിസ് സംഭവിക്കുന്നത് തടയുന്ന ഒന്നാണ് ആന്റി മൈറ്റോട്ടിക് ഇനി നിങ്ങൾ വളരെ ശ്രെദാലുവായിരിക്കേണ്ടതുണ്ട് സൈറ്റോസിൻ അറബിനോസൈറ്റ്സ് എന്നിങ്ങനെ ചില കോമ്പൌണ്ടുകളുണ്ട് ഒരു സെൽ വിഭജിക്കുമ്പോൾ ഉദ്ധാരണത്തിന് ഈ സെൽ വിഭജിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സെൽ വിഭജനം 2 ലെവൽസയാണ് നടക്കുന്നത് ഒന്ന് ഒന്ന് ന്യൂക്ലിയസ് വിഭജനം തുടർന്ന് സൈറ്റോപ്ലാസം വിഭജനോം എന്നാൽ ഈ വിഭജനം സംഭവിക്കുന്നത് സെൻട്രിയോളുകളും മൈറ്റോസിസിന്റെ മറ്റ് രൂപവത്കരണങ്ങളും ചേർന്നാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതിനാൽ സൈറ്റോസിൻ അറബിനോസൈറ്റുകൾ ഇങ്ങനെ സെല്ലുകൾ വേര്തിരിക്കില്ലന്ന് ഉറപ്പുവരുത്തും ഇത് സെൽ ഡിവിഷനെ അടിച്ചമർത്തുന്നതിനുള്ള വളരെ മോശമായ മാർഗ്ഗമാണ് എന്നാൽ ഇത് വളരെ പഴയ സാങ്കേതിക വിദ്യകളാണ് സെൽ വിഭജനം നിർത്താൻ കഴിയുന്ന മറ്റ് സാങ്കേതിക വിദ്യകളുമുണ്ട് എന്നാൽ ഈ വിഭജനത്തെ നിയന്ത്രിതമായ രീതിയിൽ നിർത്തേണ്ടത് വളരെ അനിവാര്യമാണ് എങ്കിലേ മൈലൈനേഷൻ എന്ന ലക്ഷ്യം സാധ്യമാവുള്ളു അതേപോലെ നോട്സ് ഓഫ് രൺവിയർ ഉണ്ടാവുന്നതും അവയുടെ വൈദ്യുത ഗുണങ്ങൾ വീണ്ടെടുക്കുന്നതും എന്നാൽ ഇതുവരെ ഒന്നും നമ്മൾ വന്നിട്ടില്ല അതിനാൽ ഇതിനായി ഉപയോഗിക്കുന്ന മറ്റൊരു മാഗ്ഗത്തിലേക്ക് തിരിച്ചുവന്നാൽ അതല്ലെങ്കിൽ നിരവധി ആളുകൾ ശ്രെമിച്ച മറ്റൊരു രസകരമായ കാര്യത്തിലേക്കു വന്നാൽ ഉദാഹരണത്തിന് മൈലിനേറ്റിങ് സെല്ലുകളെ ഉപയോഗിച് ഒരു ബെഡ് നിങ്ങൾ ഉണ്ടാകുക ശേഷം ഈ ബെഡിൽ സെല്ലുകളെ വളർത്തുക അതിനാൽ നിങ്ങൾ ആദ്യം ചെയ്തത് പെരിഫെറൽ ന്യൂറോണുകളെ ഇട്ട ശേഷം രണ്ടാമതായി ഷ്വാൻ സെല്ലുകളെ ഇടുന്നതാണ് ഇത് ചെയുന്നതിന്റെ ക്രേമം നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കും അതിനാൽ മറ്റൊരു രീതി ആദ്യം ഷ്വാൻ സെല്ലുകളെ ഇട്ടതിനു ശേഷം പെരിഫെറൽ ന്യൂറോണിനെ ഇടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷ്വാർ സെല്ലുകളും പെരിഫറൽ ന്യൂറോണുകളും ഒരുമിച്ച് ചേർക്കുന്ന മൂന്നാമത്തെ മാതൃകയുമുണ്ട് അതിനാൽ നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയൂ നിങ്ങൾ ഈ പ്രേശ്നത്തെ മുറിക്കുകയാണെങ്കിൽ തീർച്ചയായും മൂന്ന് പരീക്ഷണങ്ങളിലൊന്നിൽ നിങ്ങളുടെ ഭാഗ്യവും പിന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള കഠിനാധ്വാനത്തിലൂടെയും നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കുവാൻ കഴിയും രണ്ടാമത്തെ സാഹചര്യം എന്തെന്നാൽ നിങ്ങൾ ഷ്വാൻ സെല്ലുകളെ ആദ്യം ഇവിടെ ഇടുന്നു അതിനു മുകളിലായി ന്യൂറോണുകളെ ഇടുന്നു ഇവിടെ ന്യൂറോണുകൾ അതിന്റെ പ്രക്രിയകൾ അയയ്ക്കുമെന്നും ഈ ഷ്വാൻ സെല്ലുകൾ അവയിൽ വന്നു പൊതിയുമെന്നും നമ്മൾ സങ്കൽപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ സാഹചര്യം ഉണ്ട് അവിടെ നിങ്ങൾ ഇവരെ ഒരുമിച്ച് ചേർക്കുന്നു അതിനാൽ ഈ ഘട്ടത്തിൽ എന്താണ് നേടിയതെന്നറിയാൻ ഞാൻ നിങ്ങൾക് പേപ്പേഴ്സ് നൽകാം ഞാൻ ഇത് മൊത്തമായും വെളിപ്പെടുത്തുന്നില്ല ഞാൻ ഇത് നിങ്ങളുടെ ന്യായവിധിക്ക് വിട്ടുതരുന്നു എന്നാൽ പ്രേദനപെട്ടതെന്തെന്നാൽ ഈ പേപ്പറിന്റെ രണ്ടാം ഭാഗമാണ് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ഞങ്ങൾ ഒരുപാട് കാഠിന്യത്തിലൂടെ കടന്നുപോയിരുന്നു ഈ കഥക്കൾ ഇതുപോലെ തത്സമയം നിങ്ങളോടു പറയുന്നത് ആ രീതിയിൽ നിങ്ങൾ സെൽ കൾച്ചർ മനസിലാക്കുവാൻ വേണ്ടിയാണു ആധുനിക കാലത്തെ സെൽ കൾച്ചറിൽ ഇത് ചേർക്കു അത് ചേർക്കു അങ്ങനെ എന്തേലുമൊക്കെ സംഭവിക്കും പക്ഷെ ശെരിക്കും ഇങ്ങനെയല്ല നിങ്ങൾ യുക്തിപരമായി ചിന്തിക്കണം നമ്മളുടെ ശരീരം ഒരു ചിട്ടയായ രീതിയിലാണ് ഉണ്ടായത് കമ്പോണന്റ് 1 കമ്പോണന്റ് 2 കമ്പോണന്റ് 3 കമ്പോണന്റ് 4 ഇങ്ങനെ പതിയെയാണ് അവ സ്വയം നിർമിക്കുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യാൻ ശ്രെമിക്കുന്നത് സിസ്റ്റത്തിന് വെളിയിൽ ഇൻ വിട്രോ ആയി ഇവയെ വികസിപ്പിക്കുന്നതാണ് ഇത് അത്ര എളുപ്പമുള്ള ഒരു ജോലി അല്ല ഇത് ഒരു അസാധാരണമായ വെല്ലുവിളിയാണ് നിങ്ങൾക്ക് അത് എങ്ങനെ നേടാനാകും ഇത് ഒരു വല്യ പ്രക്രിയ ആണ് ഒരു നീണ്ട യാത്ര പോലെ അതിലേക്കു കൂടുതൽ കൂടുതൽ അടുക്കുമ്പോൾ മാത്രേ അതിനെ നമുക്ക് മനസിലാക്കാൻ കഴിയുള്ളു എന്നാൽ ഇതെല്ലാം ആരംഭിക്കുന്നത് ഈ ലളിതമായ പരീക്ഷണങ്ങളിലൂടെയാണ് അതിനാൽ ഇവിടെ എന്തൊക്കെയാണ് സാധ്യതകൾ എന്ന് ഞങ്ങൾ ചിന്തിച്ച രീതി ഞാൻ ഇപ്പോളും ഓർക്കുന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ സാധ്യത ഇത് രണ്ടാമത്തെ സാധ്യത ഇത് മൂന്നാമത്തെ സാധ്യത എന്നിട്ട് ഒരു ഡിഷിൽ ഇവയിൽ ഏതാവും പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾ ചിന്തിച്ചു അതിനാൽ നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണിവ എന്നാൽ എന്താണ് ഇവിടെ നേടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു രസകരമായ ഭാഗമുണ്ട് ഇപ്പോൾ നിങ്ങൾ ന്യൂറോണുകൾ മൈലൈനേഷൻ രൂപപ്പെടുത്തുന്നത് നോക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾ നിരീക്ഷിക്കുവാൻ പോകുന്ന ക്ലാസിക് ഭാഗം ഇതാണ് ഡെൻഡ്രൈറ്റുകൾ പിന്നെ ഇവിടെയാണ് നിങ്ങൾ മൈലൈനേഷൻ കാണാൻ പോകുന്നതെന്ന് കരുതുക അതിനാൽ ഇപ്പോൾ നമ്മൾ ഈ സോണുകളെ നോട്സ് ഓഫ് രൺവീർ എന്ന് വിളിക്കുന്ന ഈ സോണുകൾ സോഡിയം ചാനലുകളിൽ വളരെ സമ്പന്നമാണ് ഇപ്പോൾ നിങ്ങൾ ഇത് നേടിയെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ നോട്സ് ഓഫ് റാൻവിയറിനെ നിർമ്മിക്കാനോ സൃഷ്ടിക്കാനോ കഴിയുമോ എന്ന് നോക്കണം അതിനാൽ നിങ്ങൾ ഇത് ചെയ്തുവെന്ന് അവകാശപ്പെടുന്നതിന് മുമ്പ് ഈ സെല്ലുകളെ ഒരു കൽച്ചറിൽ മൈലിൻ ബേസിക് പ്രോട്ടീൻ ഉപയോഗിച്ച് സ്റ്റൈൻ ചെയണം പിന്നെ മൈലിൻ ബേസിക് പ്രോട്ടീന് എതിരായ ആന്റിബോഡിയും നോട്സ് ഓഫ് രൺവീർ തിരിച്ചറിയാനായി സോഡിയം ചാനലുകൾക് എതിരായ ഒരു പ്രേത്യേക സോഡിയം ചാനൽ ആന്റിബോഡീസ് ഉപയോഗിക്കുന്നു ഈ നോഡസ് ഓഫ് രൺവീറിൽ വ്യത്യസ്ത നോഡൽ പ്രോടീനുകളുണ്ട് ഇവക്കെതിരായും ആന്റിബോഡീസ് കിട്ടുകയോ വികസിപ്പിക്കുകയോ ചെയ്താൽ മാത്രമേ നിങ്ങൾക് ഇത് നേടി എന്ന് അവകാശപ്പെടാൻ സാദിക്കുള്ളു ഇതിനെല്ലാം മുകളിലായി നിങ്ങൾക്ക് ഈ ന്യൂറോണുകളിൽ നിന്നുള്ള വൈദ്യുത റെക്കോർഡിംഗ് ഉണ്ടായിരിക്കണം കൂടാതെ നിങ്ങൾ ഇവയുടെ കൻഡക്ഷൻ വെലോസിറ്റിയും അളക്കേണ്ടതുണ്ട് ശേഷം ഈ ന്യൂറോണുകളുടെയും മൈലിനേഷൻ ഇല്ലാത്ത ന്യൂറോണുകളുടെയും കൻഡക്ഷൻ വെലോസിറ്റിക്കൾ താരതമ്യപ്പെടുത്തേണ്ടതുണ്ട് നോൺ മെയ്ലിനേറ്റിംഗ് വേഴ്സസ് മൈലിനേറ്റിംഗ് ന്യൂറോണുകൾ തമ്മിലുള്ള കൻഡക്ഷൻ വെലോസിറ്റി എങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് നേടിയോ ഇല്ലയോ എന്ന് അവകാശപ്പെടാൻ കഴിയൂ സെൽ കൾച്ചർ എന്ന് വിളിക്കപ്പെടുന്ന ഈ നിസ്സാര കാര്യം എങ്ങനെയാണ് സാധ്യതകളുടെ സമാനതകളില്ലാതെ വളരെ രസകരവും ആകർഷകവുമാകുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു ഡിഷിനുള്ളിൽ ഒരുപാട് മനോഹര കാര്യങ്ങൾ ഉണ്ടാകാനാകും അതുപോലെ ഇങ്ങനാണ് ഒരു ജീവൻ രൂപപെടുന്നത് എന്ന് കാണുമ്പോൾ നിങ്ങൾക് ഒരുപാട് സന്തോഷവും അത് നൽകും ഇത് നമ്മൾ ആരംഭിച്ച പ്രശ്നത്തിന്റെ ഒരു ഭാഗമാണ് ഇനി നമുക്ക് തിരികെ പോകാം നമ്മുക് അതിന്റെ ട്രാക്ക് നഷ്ടപ്പെടുതണ്ട കാരണം ഞാൻ അൽപ്പം വ്യതിചലിചിരുന്നു അതിനാൽ ഇവിടെയാണ് നമ്മൾ ആരംഭിച്ചത് അതിനാൽ ഞാൻ ടാർഗെറ്റുചെയ്യേണ്ട പ്രശ്നം ഇതായിരുന്നു എന്നാൽ ഈ പ്രശ്നത്തെ ടാർഗെറ്റുചെയ്യാൻ എനിക്ക് കുറച്ച് ക്ലാസുകൾ കൂടി എടുക്കും ഇപ്പോൾ നമ്മൾ ആരംഭിച്ച സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നു അതിനാൽ പെരിഫറൽ ന്യൂറോണുകൾക്കായി ഒരു സെൽ കൾച്ചർ മോഡൽ എങ്ങനെ നേടാമെന്നതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ധാരണയായി എന്നാൽ കേന്ദ്ര നാഡീവ്യൂഹ ന്യൂറോണുകളെ എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇപ്പോൾ നമ്മുക് ഈ പ്രശ്നം ഒന്ന് മുറിക്കാം ഈ പ്രശ്നം മുറിക്കേണ്ടിവന്നാൽ ഞാൻ ഇവിടെയാവും വരുക അതിനാൽ നിങ്ങൾക്ക് മൈലിനേഷൻ നേടണമെങ്കിൽ ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ കൂടാതെ അഡൽറ്റ് ന്യൂറോണുകളും ആവശ്യമാണ് അതിനാൽ പെരിഫറൽ നേർവസ് സിസ്റ്റത്തിൽ ഉണ്ടാരുന്നതുപോലെ അടല്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് ഇത് നേടുവാനായി നമ്മൾ എംബ്രിയോണിക് സിസ്റ്റത്തെ ഉപയോഗിക്കുന്നു എന്റെ അറിവനുസരിച്ച് ഇപ്പോൾ ലോകത്ത് അടൽറ്റിൽ മൈലിനേഷൻ നേടിയ ഒരു ഗ്രൂപ്പുകലുമില്ല എന്നാൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് ഒരു ഡിഷിൽ നേടുവാൻ സാധിക്കുവാണെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ് പക്ഷേ ഇത് ഒരു അസാധാരണമായ വെല്ലുവിളിയാണ് ഭ്രൂണ ന്യൂറോണുമായി ബന്ധപ്പെട്ട് സെൽ കൾച്ചറിലെ മൈലൈനേഷൻ പ്രശ്നത്തെക്കുറിച് ഇവിടെയും സംസാരിക്കാം കാരണം ഇത് സാധ്യമാണെന്ന് വിജയകരമായി തെളിയിച്ച ചില മോഡലുകളാണ് ഇവ ഈ പ്രേശ്നത്തിന്റെ രണ്ടാം ഭാഗമായ അഡൽറ്റ് ന്യൂറോണുകളെ മൈലിനേറ്റ് ചെയുന്നത് സാങ്കേതികമായി വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് ഇവിടെ ഞാൻ മൈലിനേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞിരുന്നു ഈ കോശങ്ങൾ അടുത്തുവരികയും ഒടുവിൽ അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുകയും മെയ്ലിൻ ബേസിക് പ്രോട്ടീൻ സ്രവിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് മൈലിനേഷൻ കവറേജ് സംഭവിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നോട്സ് ഓഫ് രൺവീർ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഗണ്യമായ എണ്ണത്തിൽ ലേബലിംഗ് ചെയ്യുന്ന സോഡിയം ചാനലുകളുണ്ട് എന്നാൽ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ കാര്യത്തിൽ നിങ്ങൾക്കിത് നേടണമെങ്കിൽ ഇത് ഇങ്ങനെ പ്രവർത്തിക്കില്ല കേന്ദ്ര നാഡീവ്യൂഹതിൽ മൈലിനേഷൻ നടത്തുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാൽ ഒളിഗോഡെൻഡ്രോസൈറ്റ് സെല്ലുകൾ തുടക്കത്തിൽ ഇതുപോലെയാണ് കാണപ്പെടുന്നത് ശേഷം ഇതുപോലെ ചില പ്രക്രിയകൾ അവ പുറത്തുവിടുന്നു ഒന്നിലധികം ദിശകളിലേക്ക് ഒന്നിലധികം പ്രക്രിയകൾ പുറത്തുവിടുന്നു അതിനാൽ ഇവ വളരെ മൾട്ടിപോളാർ ആയ സെല്ലുകളാണ് ഈ മൾട്ടിപോളാർ സെല്ലുകൾ ഒരു ആക്സോണുമായി ബന്ധിച്ചാൽ അവ ഇതുപോലൊന്ന് ഉണ്ടാക്കുന്നു അതായത് അവിടെ വന്നതിനുശേഷം ഇതാണ് മൈലൈനേഷൻ പ്രോട്ടീൻ സ്രവിക്കുന്ന ഭാഗം ഇനി വേറൊരു ദിശയിൽ നിന്ന് മറ്റൊരു ഒളിഗോ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടൊരു സാൻഡ്വിച്ച് രൂപപ്പെടും ഇനി ഇതിനിടയിൽ ഒരു പ്രക്രിയ നടക്കുന്നുണ്ടെന്നും ഇവിടെ നിന്ന് ഇതുപോലൊന്നും മറ്റൊരു ദിശയിൽ നിന്ന് ഇതുപോലെയാണെന്നും വരുന്നു എന്ന് സങ്കല്പിക്കുക ഇങ്ങനെ പതിയെ ഒന്നിലധികം ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾ സെൻട്രൽ നേർവസ് സിസ്റ്റം ന്യൂറോണിനെ മൈലിനേറ്റ് ചെയ്യും കേന്ദ്ര നാഡീവ്യൂഹം ന്യൂറോണിന്റെ പ്രക്രിയകൾ പെരിഫറൽ നാഡീവ്യൂഹം ന്യൂറോണിനെപ്പോലെ കട്ടിയുള്ളതല്ല പെരിഫറൽ നാഡീവ്യൂഹം ന്യൂറോണിൽ നിങ്ങൾക്ക് കട്ടിയുള്ള കോട്ടിംഗും കവറിംഗും ഉണ്ട് എന്നാൽ കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ ന്യൂറോണുകൾ വികസിപ്പിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അതിനപ്പുറം വികസിക്കാൻ അതിന് കഴിയില്ല അതിനാൽ ഇത് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി ആദ്യം നിങ്ങൾക്ക് ന്യൂറോണിന്റെ ഉറവിടം ആവശ്യമാണ് ഇപ്പോൾ നമ്മുക്ക് വീണ്ടും ഇവിടെ ചെയ്തതുപോലെ പ്രേശ്നത്തെ മുറിക്കാം ഇപ്പോൾ ഞാൻ പെരിഫറൽ മാറ്റി അതിനെ കേന്ദ്ര നാഡീവ്യൂഹമാക്കി മാറ്റുന്നു ഇത് കേന്ദ്ര നാഡീവ്യൂഹമാണ് അതിനുശേഷം അതിനനുസൃതമായ മൈലിനേഷൻ ഡിസോർഡർ അത് അതേപടി തുടരുന്നു ഷ്വാൻ സെല്ലുകൾ ഇപ്പോൾ ഒലിഗോ ഡെൻഡ്രോസൈറ്റുകളായി മാറും അതിനാൽ കേന്ദ്ര നാഡീവ്യൂഹവും ഒലിഗോഡെൻഡ്രോസൈറ്റും പിന്നെ ഇവിടുത്തെ പ്രെശ്നം മൈലിനേഷൻ കൈവരിക്കുക എന്നും തീർച്ചയായും സെൻട്രൽ നാഡീവ്യൂഹത്തിന് ന്യൂറോണൽ സോഴ്സ് ആയി നിങ്ങൾ ഭ്രൂണ ടിഷ്യു ആയിരിക്കും ഉപയോഗിക്കുന്നത് ഇത് ഏത് തരം സെല്ലുകളാണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ ഒളിഗോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും മികച്ച ചോയ്സ് ഹിപ്പോകാമ്പൽ ന്യൂറോണുകളായിരിക്കും അതിനാൽ ഇപ്പൊ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ഭ്രൂണ ഉത്ഭവമുള്ള പിരമിഡൽ ന്യൂറോണുകളായ ഹിപ്പോകാമ്പൽ ന്യൂറോണുകളുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് ഇവ ഒളിഗോഡെൻഡ്രോസൈറ്റുകളുമായി മൈലിനേറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടായിരുന്നു അതിനാൽ ഇവിടെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് എന്തെന്നാൽ ആധുനിക സെൽ കൾച്ചർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് മനസിലാക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒരാൾ വിലമതിക്കേണ്ടത് നിങ്ങൾ ഏത് ലെവലിൽ ആണ് ഏത് തരം ടിഷ്യു ഉപയോഗിക്കുന്നു എന്നതിൽ ഒന്നും കാര്യമില്ല ഞാൻ ഈ പഠനം നാഡീവ്യവസ്ഥയുടെ കാര്യത്തിൽ എടുക്കുന്നു കാരണം ഇത് നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് നിങ്ങൾക്കു ഇത് മറ്റ് ടിഷ്യുസ് ഉപയോഗിച്ചും വിവർത്തനം ചെയ്യാം പാൻക്രിയാറ്റിക് ടിഷ്യു കരൾ ടിഷ്യു വൃക്ക ഇതൊന്നും പ്രശ്നമല്ല പ്രാധാന്യമർഹിക്കുന്നത് എന്തെന്നാൽ ഈ പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെ ടാർഗെറ്റുചെയ്യുന്നു എന്നതാണ് ഇതാണ് ഏറ്റവും പ്രെധാനപെട്ട കാര്യം എന്നാൽ നിങ്ങൾക്ക് ഒരു വ്യത്യാസം വരുത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് എങ്ങനെ നേടാൻ പോകുന്നു എന്നതിനെക്കുറിച് നിങ്ങൾക്ക് ഉചിതമായ ഒരു മാതൃക ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു മാതൃക എന്നരീതിയിൽ എങ്ങനാണ് നിങ്ങൾ ഇത് ചെയുക എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഒന്നാമതായി ഈ മാതൃക ഡിഫൈൻ ചെയ്യെണ്ടതുണ്ട് രണ്ടാമതായി നിങ്ങൾക്ക് ഒരു ഡിഫൈൻട് പ്രോട്ടോക്കോൾ ആവശ്യമാണ് അങ്ങനെയെങ്കിൽ അത് എല്ലാവർക്കും പിന്തുടരാനാകും അടുത്തതായി നിങ്ങൾക്ക് ഒരു ഡിഫൈൻട് മീഡിയം ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങൾക്ക് ഒരു ഡിഫൈൻട് സർഫസ് ഉണ്ടായിരിക്കണം ഒരിക്കൽ നിങ്ങൾക്ക് ഇവയെല്ലാം ഒന്നിച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നതിനായി ഡിഫൈൻട് സിസ്റ്റംസ് വികസിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ സംഭാവന നൽകാൻ കഴിയും അതിനാൽ ഈ പശ്ചാത്തലത്തിൽ ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു കൂടാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മനസിലാക്കാൻ നിങ്ങൾക്ക് സഹായകമാക്കുന്ന ഹാൻഡ്ഔട്ടുകൾ ഞാൻ അയക്കാം അവ എങ്ങനെ ടാർഗെറ്റുചെയ്യാമെന്നും എല്ലാ തരത്തിലുള്ള പ്രോട്ടോക്കോൾസും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നത്തെ ടാർഗെറ്റുചെയ്യുന്നതിന്റെ തത്വശാസ്ത്രവും ഡ്രഗ് ഡിസ്കവറി പ്രക്രിയയിൽ നമുക്ക് എങ്ങനെ മാറ്റം വരുത്താനാകും എന്നതാണ് പ്രധാന ഭാഗം